MOS ട്രാൻസിസ്റ്റർ എന്ന പ്രായോഗിക ആംപ്ലിഫയർ ഉപകരണത്തിന്റെ വലിയ സിഗ്നലും ചെറിയ സിഗ്നൽ സവിശേഷതകളും ഇപ്പോൾ നമുക്ക് പരിചിതമാണ് MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ടു പോർട്ട് ആംപ്ലിഫയർ നിർമ്മിക്കാൻ ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലെ സിഗ്നൽ സോഴ്സ് ഒരു റെസിസ്റ്റൻസ് ഉള്ള ശ്രേണിയിലുള്ള ഒരു വോൾട്ടേജ് സോഴ്സാണ് മാതൃകയാക്കുന്നത് തെവെനിൻ സിദ്ധാന്തത്തിൽ Thevenin's theorem നിന്ന് നിങ്ങൾക്കറിയാവുന്ന ഏതൊരു സോഴ്സിനും വേണ്ടിയുള്ള പൊതു മാതൃകയാണിത് ഞങ്ങൾക്ക് രണ്ട് പോർട്ട് ഉണ്ട് ഞങ്ങൾ ഇത് പരിഗണിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അത് ഉടൻ തന്നെ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും ഇതാണ് കോമൺ പോർട്ട് ലോഡ് മറുവശത്തേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ എന്താണ് ഈ ടു പോർട്ട് ഇത് നോൺലീനിയർ ടു പോർട്ടിന്റെ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ ഇക്വലന്റാണ് നമുക്ക് ഗെയിൻ ലഭിക്കാൻ രേഖീയത ആവശ്യമില്ലെന്നും ഇൻക്രിമെന്റൽ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് ഗെയിൻ ലഭിക്കൂ എന്നും നാം കണ്ടു അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് നോൺലീനിയർ ടു പോർട്ടിന്റെ ഇൻക്രിമെന്റൽ ഇക്വലന്റ് ഉപയോഗിച്ച് മാറ്റി ഒടുവിൽ MOS ട്രാൻസിസ്റ്റർ ആയ നോൺലീനിയർ ഉപകരണം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ സർക്യൂട്ട് കൊണ്ടുവരിക എന്നതാണ് അതിനാൽ ഞാൻ ഇവിടെ MOS ട്രാൻസിസ്റ്ററിന്റെ ഇൻക്രിമെന്റൽ ഇക്വലന്റ് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് VS RS ഉണ്ടായിരിക്കും MOS ട്രാൻസിസ്റ്ററിന്റെ ഇൻക്രിമെന്റൽ ഇക്വലന്റ് ഇതാണ് Y11 Y12 Y22 എന്നിവയെല്ലാം പൂജ്യമാണ് നമുക്ക് ഇവിടെ VGS ഉണ്ടാകും ഞാൻ കത്തിടപാടുകൾ കാണിക്കട്ടെ ഇത് ഗേറ്റ് ടെർമിനലുമായി യോജിക്കുന്നു പൊതുവായത് സോഴ്സ് ടെർമിനലും ഈ ടെർമിനൽ ടു പോർട്ട് ടു ഡ്രെയിൻ ടെർമിനലും ആണ് അതിനാൽ നമുക്ക് ഗേറ്റ് സോഴ്സ് ഡ്രയിൻ എന്നിവ ഉണ്ടാകും തീർച്ചയായും ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ അനുമാനിച്ചു അതിനാൽ സാച്ചുറേഷൻ മേഖലയിൽ MOS ന് തുല്യമായ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ ഉപയോഗിച്ച് ഇത് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് ഞാൻ ചെയ്തത് കാരണം സാച്ചുറേഷൻ മേഖലയിൽ നല്ല ഉയർന്ന നേട്ടമുള്ള ആംപ്ലിഫയർ ഉണ്ടാക്കാൻ അഭികാമ്യമായ സ്വഭാവസവിശേഷതകൾ നമുക്കുണ്ട് അതിനാൽ ഈ സോഴ്സ് g m VGS ആയിരിക്കും ഓർക്കുക നമ്മൾ യഥാർത്ഥ MOSFET ഉപയോഗിച്ചാണ് സർക്യൂട്ട് നിർമ്മിക്കേണ്ടത് അതിന്റെ ഇൻക്രിമെന്റൽ ഇക്വലന്റ് ഇതായിരിക്കും അതിനാൽ ഞങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കാൻ ഇത് ആംപ്ലിഫയറിന്റെ ഇൻക്രിമെൻറൽ ഇക്വലന്റാണ് ഞങ്ങൾ ഇതുവരെ പൂർണ്ണമായ സർക്യൂട്ട് കാണിച്ചിട്ടില്ല പൂർണ്ണമായ സർക്യൂട്ടിൽ ഒരു MOS ട്രാൻസിസ്റ്റർ അടങ്ങിയിരിക്കും കൂടാതെ ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ MOS ട്രാൻസിസ്റ്ററിനെ അതിന്റെ ഇൻക്രിമെന്റൽ ഇക്വലന്റ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് ലഭിക്കും അതിനാൽ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് നമുക്ക് അത് കൃത്യമായി ചെയ്യാൻ കഴിയുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം അതിനാൽ ഇത് എന്താണ് ചെയ്യുന്നത് ഗേറ്റിനും സോഴ്സിനും ഇടയിൽ ഇത് വളരെ ലളിതമാണ് ഞങ്ങൾക്ക് ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട് അതിനാൽ ഈ ശാഖയിൽ ഒഴുകുന്ന കറന്റ് പൂജ്യമാണ് അതിനാൽ വോൾട്ടേജ് VGS ഇൻപുട്ട് സോഴ്സ് VS ന് തുല്യമാണ് അഭികാമ്യമായ y പാരാമീറ്ററുകൾ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ കണ്ടു Y11 പൂജ്യവും Y12 പൂജ്യവുമാണെന്ന് ഞങ്ങൾ കണ്ടു VS മുതൽ സർക്യൂട്ടിന്റെ ആദ്യ പോർട്ട് വരെയുള്ള ഏതെങ്കിലും വോൾട്ടേജ് ഡിവിഷൻ ഇല്ലാതാക്കുക അതിനാൽ നമുക്ക് എല്ലാ ഇൻപുട്ട് വോൾട്ടേജും VGS ആയി ലഭിക്കും ഇത് G m VGS എന്ന കൺട്രോൾ കറന്റിന് കാരണമാകുന്നു ഇതെല്ലാം RL ലേക്ക് ഒഴുകുന്നു അതിനാൽ ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ലളിതമായിരിക്കും കാരണം കറന്റ് RL വഴി മുകളിലേക്ക് ഒഴുകുന്നു ഇത് മൈനസ് gm RL തവണ VS ന് തുല്യമായിരിക്കും അതിനാൽ ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് gm RS തവണ VS ആണ് കൂടാതെ ഇത് മൈനസ് gm RL ആണ് ഗെയിൻ നമുക്ക് ആവശ്യമുള്ള മൂല്യത്തിലേക്ക് ഇത് സജ്ജീകരിക്കാം ഇൻപുട്ട് സോഴ്സും ലോഡും ഞങ്ങൾക്ക് നൽകും അതായത് VS RS RL എന്നിവ നൽകിയിരിക്കുന്നു അതിനാൽ ആവശ്യമുള്ള ഗെയിൻ ലഭിക്കുന്നതിന് നമ്മൾ g m ന്റെ മൂല്യം സജ്ജീകരിക്കേണ്ടതുണ്ട് കൂടാതെ g m ന്റെ ആവശ്യമുള്ള മൂല്യം സജ്ജീകരിക്കുന്നതിന് MOS ട്രാൻസിസ്റ്ററിനായി ശരിയായ പ്രവർത്തന പോയിന്റ് സജ്ജീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഗെയിനിന് ഒരു നെഗറ്റീവ് അടയാളമുണ്ട് ഇപ്പോൾ അത് അവഗണിക്കുക ഇത് ഇത്തരത്തിലുള്ള ആംപ്ലിഫയറിന്റെ ഒരു വസ്തുത മാത്രമാണ് പിന്നീട് നിങ്ങൾ മറ്റ് നിരവധി ടോപ്പോളജികൾ കാണും അവയിൽ ചിലത് നിങ്ങൾക്ക് പോസിറ്റീവ് അടയാളം നൽകും അവയിൽ ചിലത് നിങ്ങൾക്ക് നെഗറ്റീവ് അടയാളങ്ങൾ നൽകും അതിനാൽ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിന്റെ ചെറിയ സിഗ്നൽ മോഡൽ ഇങ്ങനെയായിരിക്കണം ഞാൻ ഇവിടെ കാര്യമായൊന്നും ചെയ്തിട്ടില്ല ടു പോർട്ട് നെറ്റ്വർക്കിന്റെ ഒരു പോർട്ടിലേക്ക് സോഴ്സ് കണക്റ്റുചെയ്യാനും മറ്റേ പോർട്ടിലേക്കും ലോഡ് ചെയ്യാനും സോഴ്സിനും ലോഡിനുമിടയിൽ സോഴ്സ് ബന്ധിപ്പിക്കാനും നേരത്തെ ഈ ആശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ഗെയിൻ ഉണ്ടാകും ടു പോർട്ട് MOS ട്രാൻസിസ്റ്ററിന്റെ ചെറിയ സിഗ്നൽ ലീനിയർ മോഡൽ വെച്ച് മാറ്റിസ്ഥാപിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്